ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനുകൾ I ഭാഗം 1 എല്ലാവർക്കും സ്വാഗതം എഞ്ചിനീയറിംഗ് ഡ്രോയിംഗ് ആൻഡ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് കുറിച്ചുള്ള നമ്മുടെ എൻ എൽ ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സുകളിലേക്ക് സ്വാഗതം ഖരഗ്പൂരിലെ ഐ ടി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്നുള്ള രാജരം ലക്കരാജു ആണ് ഞാൻ ഇന്ന് മുതൽ മൊഡ്യൂൾ നമ്പർ 3 ലെക്ചർ നമ്പർ 21 ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനുകളെ കുറിച്ച് പഠിക്കാൻ പോകുന്നു കഴിഞ്ഞ രണ്ട് ക്ലാസുകളിൽ നമ്മൾ ആമുഖം ജ്യാമിതീയ നിർമ്മാണങ്ങൾ കോണിക് വിഭാഗങ്ങൾ എന്നിവയെ കുറിച്ച് പഠിച്ചു ഇപ്പോൾ മുതൽ മൂന്നാം മൊഡ്യൂളിൽ നമ്മൾ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനുകൾ പഠിക്കും ഇത് മൊഡ്യൂൾ നമ്പർ 3 നും മൊഡ്യൂൾ നമ്പർ 4 നും വേണ്ടിയുള്ളതാണ് നമ്മുടെ പാഠപുസ്തകം എൻഡി ഭട്ട് പഞ്ചാൽ എന്നിവരുടെ എഞ്ചിനീയറിംഗ് ഡ്രോയിംഗ് ആണ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനുകളിൽ ഓൺലൈനിൽ നൽകിയ മികച്ച മെറ്റീരിയലുകൾക്ക് പ്രൊഫസർ അഖിലേഷ് കുമാർ മൌര്യയോട് നമ്മുടെ ആത്മാർത്ഥമായ നന്ദി പ്രകടിപ്പിക്കുന്നു മിക്ക സ്ലൈഡുകളും വിവരങ്ങളും അദ്ദേഹത്തിന്റെ സൃഷ്ടികളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അദ്ദേഹത്തിന്റെ അനുമതിയോടെ എടുത്തതാണ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്താണ് എന്നതാണ് നമ്മൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്നത് ഒരു സാങ്കേതിക ഡ്രോയിംഗ് ആണ് അതിൽ ഒരു വസ്തുവിന്റെ വ്യത്യസ്ത കാഴ്ചകൾ വ്യത്യസ്ത റഫറൻസ് പ്ലെയിനുകളിൽ പ്രദർശിപ്പിക്കും അതത് റഫറൻസ് പ്ലെയിനുകളെ ലംബമായി നിരീക്ഷിക്കുന്നു അതിനാൽ വ്യത്യസ്ത കാഴ്ചകൾ കാണിക്കുന്നതിനുള്ള ഒരു സാങ്കേതികതയാണിത് വ്യത്യസ്ത റഫറൻസ് പ്ലെയിനുകൾ എന്നത് ഒരു ഹൊറിസോണ്ടൽ പ്ലെയിൻ ആകാം അതിനെ നമ്മൾ എച്ച്പി എന്ന് സൂചിപ്പിക്കുന്നു ഒരു വെർട്ടിക്കൽ പ്ലെയിൻ ഇനെ VP ഉം സൈഡ് അല്ലെങ്കിൽ പ്രൊഫൈൽ പ്ലെയിൻ ഇനെ PP എന്നും സൂചിപ്പിക്കുന്നു വ്യത്യസ്ത റഫറൻസ് പ്ലെയിൻ ഹൊറിസോണ്ടൽ പ്ലെയിൻ വെർട്ടിക്കൽ പ്ലെയിൻ അല്ലെങ്കിൽ പ്രൊഫൈൽ പ്ലെയിൻ എന്നിവ കണ്ടെത്തുന്നതിനുള്ള എഞ്ചിനീയറിംഗ് ഡ്രോയിംഗിലുള്ള സ്റ്റാൻഡേർഡ് കൺവെൻഷനുകളാണ് ഇവ ഒരു ഡ്രോയിംഗിന്റെ വ്യത്യസ്ത കാഴ്ചകളിൽ നമ്മൾ ഫ്രണ്ട് വ്യൂ ഇനെ വെർട്ടിക്കൽ പ്ലെയിൻനിൽ പ്രൊജക്റ്റ് ചെയ്യാൻ പോകുന്ന ടോപ് വ്യൂ ഇനെ ഹൊറിസോണ്ടൽ പ്ലെയിൻനിൽ പ്രൊജക്റ്റ് ചെയ്യും സൈഡ് വ്യൂ ഇനെ പ്രൊഫൈൽ പ്ലെയിനിൽ പ്രൊജക്റ്റ് ചെയ്യും ഉദാഹരണത്തിന് നമുക്ക് ഒരു ചതുരാകൃതിയിലുള്ള ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എ ബി സി എന്ന് വശങ്ങളെ വിളിക്കാം ഇതാണ് ബ്ലോക്ക് എങ്കിൽ നമ്മൾ അത് പ്രൊജക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഉദാഹരണത്തിന് തിളങ്ങുന്ന പ്രകാശമുള്ള ഒരു വിളക്ക് നമുക്ക് എടുക്കാം അതിനാൽ നമ്മൾ ഒരു ഷീറ്റിൽ പ്ലെയിൻ A പ്രൊജക്റ്റ് ചെയ്യാൻ പോകുകയാണെങ്കിൽ ഈ പ്ലെയിൻ ഒരു വെർട്ടിക്കൽ പ്ലെയിൻ ആയിരിക്കും അതിനാൽ ഇതിനെ നമ്മൾ വെർട്ടിക്കൽ പ്ലെയിൻ എന്ന് വിളിക്കുന്നു നമ്മൾ ഇത് പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ വസ്തുവിന്റെ പുറകുവശം നമുക്ക് ഒന്നും കാണാൻ കഴിയില്ല നമുക്ക് വശങ്ങളിലെ കാര്യങ്ങൾ പോലും കാണാൻ കഴിയില്ല മിക്ക കേസുകളിലും ടോപ്പ് വ്യൂ കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയില്ല നമുക്ക് കാണാൻ കഴിയുന്നത് എ മാത്രമാണ് നമുക്ക് അത് മാത്രം കാണാനാകുന്ന അവസ്ഥയിലായിരിക്കും ആ വസ്തുവിലേക്ക് നമുക്ക് തിളങ്ങുന്ന പ്രകാശം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് A കാണാൻ കഴിയൂ ഇത്തരത്തിലുള്ളവയെ നമ്മൾ പ്രൊജക്ഷൻ എന്ന് വിളിക്കുന്നു ഇവിടെ പ്ലെയിൻ ഒരു വെർട്ടിക്കൽ പ്ലെയിൻ ആണ് നമ്മൾ അതിനെ ഈ ദിശയിൽ പ്രദർശിപ്പിക്കുന്നു സമാനമായി അതേ വസ്തുവിൽ എ ബി സി വശങ്ങളെ നമ്മൾ മുകളിൽ നിന്ന് കാണാൻ പോകുകയാണെങ്കിലോ മുകളിൽ നിന്ന് ഒരു തിളങ്ങുന്ന പ്രകാശം വരുന്നുണ്ടെങ്കിലോ നമുക്ക് എ എന്താണ് എന്ന് കാണാൻ കഴിയില്ല സമാന്തരമായി ചതുരാകൃതിയിലുള്ള ഈ വസ്തുവിൽ ബി എന്താണ് എന്നും കാണാൻ കഴിയില്ല നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ എന്താണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ സി ഒരു ദീർഘചതുരം പോലെ മാപ്പു ചെയ്യപ്പെടും അതിനാൽ ഈ പോയിന്റ് ആ പോയിന്റുമായി ഒത്തുചേരുന്നു ഇത് ഇവിടെ ഒത്തുചേരുന്നു ഇത് അവിടെ ഒത്തുചേരുന്നു പ്രകാശം കാരണം ഈ രണ്ട് പോയിന്റുകളും നമുക്ക് രണ്ട് പോയിന്റുകളായി കാണാൻ കഴിയില്ല നമ്മൾ അതിനെ ഒരു പോയിന്റായി മാത്രം കാണും ഇതിനെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്ന് വിളിക്കുന്നത് ആ ഹൊറിസോണ്ടൽ പ്ലെയിനിനെ നമ്മൾ മുകളിൽ നിന്ന് കാണുന്നു അതിനാൽ ഹൊറിസോണ്ടൽ പ്ലെയിനിലേക്ക് ടോപ്പ് വ്യൂ പ്രൊജക്റ്റ് ചെയ്യപ്പെടും അതുപോലെ സൈഡ് വ്യൂഇനായി നമ്മൾ ഇത് പ്രൊഫൈൽ പ്ലെയിനിൽ അല്ലെങ്കിൽ സൈഡ് പ്ലെയിനിൽ പ്രൊജക്റ്റ് ചെയ്യും ഉദാഹരണത്തിന് ഈ വശത്ത് നിന്ന് നമ്മൾ ഒബ്ജക്റ്റ് കാണാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ നമുക്ക് സി എ C A ഉപരിതലങ്ങൾ കാണാൻ കഴിയില്ല മറ്റൊരു പ്ലെയിനിലേക്ക് ഇത് പ്രൊജക്ഷൻ ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത് അതിനെ പ്രൊഫൈൽ പ്ലെയിൻ എന്ന് വിളിക്കും ഒരു ദീർഘചതുരം ബി ബ്ലോക്ക് പോലുള്ള ഒന്ന് നമുക്ക് കാണാം പ്രൊഫൈൽ പ്ലെയിനിൽ പ്രൊജക്റ്റ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള പ്രൊജക്ഷനെ സൈഡ് വ്യൂ എന്ന് നമ്മൾ വിളിക്കും സൈഡ് വ്യൂ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ എന്നിവയാണ് വ്യത്യസ്ത കാഴ്ചകൾ നമ്മൾ ഒരു പ്രകാശം പ്രകാശിപ്പിക്കാൻ പോകുന്ന വ്യത്യസ്ത പ്ലെയിനുകൾ ഇവയൊക്കെയാണ് വെർട്ടിക്കൽ പ്ലെയിനിൽ ഫ്രണ്ട് വ്യൂ ലഭിക്കും ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ടോപ്പ് വ്യൂ ലഭിക്കും സൈഡ് പ്ലെയിൻ അഥവാ പ്രൊഫൈൽ പ്ലെയിനിൽ സൈഡ് വ്യൂ ലഭിക്കും അത്തരം പ്രൊജക്ഷനുകൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒബ്ജക്റ്റിനെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ നമുക്ക് ലഭിക്കും ഈ ഒബ്ജക്റ്റുകൾക്കായി നമ്മൾ വ്യത്യസ്ത നൊട്ടേഷനുകൾ പിന്തുടരുന്നു നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഡ്രോയിംഗ് ഷീറ്റിൽ പോയിന്റുകളും രേഖകളും ഉണ്ടാകും അതിനാൽ ഈ കാഴ്ചയെ അടിസ്ഥാനമാക്കി നമ്മൾ ചിഹ്നങ്ങൾ ശ്രദ്ധിക്കും ഉദാഹരണത്തിന് ടോപ്പ് വ്യൂ സാധാരണയായി ഹൊറിസോണ്ടൽ പ്ലെയിനിലേക്ക് പ്രൊജക്റ്റുചെയ്യുന്നു രേഖകൾ പോയിന്റുകൾ എന്നിവയെ a b c d എന്നിങ്ങനെ അല്ലെങ്കിൽ 1 2 3 എന്നിങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു ഇത് ഒരു രേഖയാണെങ്കിൽ നമ്മൾ അതിനെ a b രേഖ അല്ലെങ്കിൽ p q രേഖ ഉപയോഗിച്ച് കാണിക്കുന്നു ഇവയെല്ലാം ചെറിയ അക്ഷരങ്ങളാണ് ചെറിയ അക്ഷരങ്ങൾ ഉപയോഗിച്ച് എല്ലാ പോയിന്റുകളും പ്രതിനിധീകരിക്കണം A b എന്ന രണ്ട് അക്ഷരങ്ങളിൽ ചേരുന്ന ഒരു രേഖയാണെങ്കിൽ അത് ചെറിയ അക്ഷരങ്ങളിൽ ഒരു രേഖയായി പ്രതിനിധീകരിക്കുന്നുവെങ്കിൽ അത് പിന്തുടരില്ല നമ്മൾ സാധാരണയായി വെർട്ടിക്കൽ പ്ലെയിനിൽ ഫ്രണ്ട് വ്യൂ പ്രൊജക്റ്റ് ചെയ്യുന്നു അതിനു നമ്മൾ ഒരു ഡാഷ് അഥവാ പ്രൈം ചിഹ്നം ഉപയോഗിക്കുന്നു നമ്മൾ ചെറിയ അക്ഷരം a ഉപയോഗിക്കുന്നു പക്ഷേ ഒരു പ്രൈം കൂടി ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ a' എന്ന് കാണിക്കുന്നു ഇത് ഒരു രേഖയാണെങ്കിൽ നമ്മൾ അതിനെ a' b' ആയി പ്രതിനിധീകരിക്കുന്നു ഒരു അക്ഷരം എ' ബി' a'b' അല്ലെങ്കിൽ എ' a' ഉണ്ടെങ്കിൽ അത് നമ്മൾ ഫ്രണ്ട് വ്യൂ ഇൽ സൂചിപ്പിക്കുന്നു ' ഇല്ലാത്തതാണെങ്കിൽ നമ്മൾ ടോപ്പ് വ്യൂ യിലാണ് ഇത് സൈഡ് വ്യൂ ആണെങ്കിൽ നമ്മൾ അതിനെ രണ്ട് പ്രൈമ് നൊട്ടേഷൻ ഉപയോഗിച്ച് കാണിക്കുന്നു നമ്മൾ ചെറിയ അക്ഷരമാണ് ഉപയോഗിക്കുന്നത് എന്നാൽ രണ്ട് പ്രൈമുകൾ സൈഡ് വ്യൂ യിനെ സൂചിപ്പിക്കുന്നു ഉദാഹരണത്തിന് നമ്മൾ a b c d വശങ്ങൾ കാണിക്കുന്ന ഒരു വസ്തുവിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം ഒരു ഡാഷും ഇല്ലാതെ നമ്മൾ അത് കാണിക്കുന്നുണ്ടെങ്കിൽ അത് ടോപ്പ് വ്യൂ യിനെ സൂചിപ്പിക്കുന്നു ഇത് എ' ബി' സി' ഡി' a' b' c' d' പോലെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ഫ്രണ്ട് വ്യൂ യിനെ സൂചിപ്പിക്കുന്നു അതുപോലെ സൈഡ് വ്യൂ യിൽ നമ്മൾ ഇത് രണ്ട് ഡാഷുകൾ ഉപയോഗിച്ച് കാണിക്കും അക്ഷരങ്ങൾക്ക് പകരമായി സമാനമായ ശൈലിയിലുള്ള സംഖ്യകളാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ഇത് പോലെ പിന്തുടരും പിന്നീടുള്ള ക്ലാസുകളിൽ നമ്മൾ ഇടയ്ക്കിടെ മുകളിലേക്കും താഴെയുമായി രണ്ട് വാക്കുകൾ മുന്നിലും പിന്നിലും ഇടയ്ക്കിടെ ഉപയോഗിക്കുന്നു ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിർവ്വചനങ്ങൾക്കായി നമ്മൾ കണ്ടെത്തിയാൽ മുകളിലുള്ള ഏതെങ്കിലും രേഖകൾ സൂചിപ്പിക്കുന്നു ഹൊറിസോണ്ടൽ പ്ലെയിൻ സംബന്ധിച്ച് ഒരു പോയിന്റ് പ്ലെയിനിന് മുകളിലോ പ്ലെയിനിന് താഴെയോ ആണെന്ന് നമ്മൾ വ്യക്തമാക്കും അതിനാൽ ഹൊറിസോണ്ടൽ പ്ലെയിൻ സംബന്ധിച്ച് ഒരു വസ്തുവിന്റെ റഫറൻസ് സ്ഥാനം അതിന് മുകളിലോ താഴെയോ ആണ് ഒരു വെർട്ടിക്കൽ പ്ലെയിൻ ഉണ്ടെങ്കിൽ അത് മുന്നിലോ പിന്നിലോ ആണെന്ന് നമ്മൾ വ്യക്തമാക്കുന്നു അതിനാൽ ആ പ്ലെയിനിന് മുന്നിൽ ആ ലക്ഷ്യം എത്രത്തോളം നിലവിലുണ്ട് പ്ലെയിനിന് പിന്നിൽ ആ ലക്ഷ്യം എത്രത്തോളം ഉണ്ട് ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന അടിസ്ഥാന പദങ്ങൾ ഹൊറിസോണ്ടൽ പ്ലെയിൻ അല്ലെങ്കിൽ വെർട്ടിക്കൽ പ്ലെയിൻ എന്നിവയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇത് സൂചിപ്പിക്കുന്നതെന്ന് ഇത് സൂചിപ്പിക്കുന്നു ഏതെങ്കിലും ചിത്രം വിവരിക്കാൻ മൊത്തത്തിലുള്ള വീക്ഷണകോണിൽ നമ്മൾ പ്രൊജക്ഷനുകൾ ഉപയോഗിക്കുന്നു ഈ പ്രൊജക്ഷനുകൾ പ്രധാനമായും രണ്ട് തരത്തിലാണ് ഒന്ന് പാരലൽ പ്രൊജക്ഷനുകൾ മറ്റൊന്ന് കൺവെർജിങ് പ്രൊജക്ഷനുകൾ കൺവെർജിങ് പ്രൊജക്ഷനുകൾ കാര്യത്തിൽ വസ്തുക്കൾ ചെറുതായി കാണപ്പെടാം അല്ലെങ്കിൽ വലുതായി തോന്നാം കാരണം ഈ പോയിന്റുകൾ ഒരു പ്ലെയിനിലേക്ക് ഒത്തുചേരുന്നു ഉദാഹരണത്തിന് എനിക്ക് ഒരു ദീർഘചതുരം ഉണ്ടെങ്കിൽ നമ്മൾ തരം തിരിച്ച് നോക്കുകയാണെങ്കിൽ ഈ കോണുകളെല്ലാം ഒരൊറ്റ പോയിന്റിലേക്ക് പരിവർത്തനം ചെയ്യും അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും പ്ലെയിൻ നിർമ്മിക്കുകയാണെങ്കിൽ ഒബ്ജക്റ്റ് വളരെ ചെറിയ ഒരു വസ്തുവായി കാണപ്പെടുന്നു ശരിയായ സ്കെയിലിംഗ് ഉപയോഗിച്ച് ഇത് വളരെ വലിയ വസ്തുവായി കാണപ്പെടാം മറ്റ് തരത്തിലുള്ള പ്രൊജക്ഷനുകളെ പാരലൽ പ്രൊജക്ഷനുകൾ എന്ന് വിളിക്കുന്നു അതിൽ ഈ ഒബ്ജക്റ്റ് വലുപ്പം ഒരിക്കലും മാറില്ല കൺവെർജിങ് പ്രൊജക്ഷനുകൾ സാധാരണയായി ഉപയോഗിക്കുന്നത് പെർസ്പെക്റ്റീവ് ഡ്രോയിംഗിനാണ് പിന്നീടുള്ള ക്ലാസുകളിൽ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതലറിയും നമ്മുടെ എഞ്ചിനീയറിംഗ് ഡ്രോയിംഗ് കോഴ്സിലും മെഷീൻ ഡിസൈനിംഗ് തരത്തിലുള്ള കോഴ്സിലും പാരലൽ പ്രൊജക്ഷനുകൾ ആണ് പൊതുവായുള്ളത് രണ്ട് തരം പ്രൊജക്ഷനുകൾ നിലവിലുണ്ട് ഒന്ന് ഓർത്തോഗണൽ പ്രൊജക്ഷൻ മറ്റൊന്ന് ഒബ്ലിക് പ്രൊജക്ഷൻ ഈ ഓർത്തോഗണൽ പ്രൊജക്ഷനുകളെ രണ്ട് ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു അതിലൊന്നാണ് മൾട്ടി വ്യൂ പ്രൊജക്ഷനുകൾ മറ്റൊന്ന് അക്സോണോമെട്രിക് പ്രൊജക്ഷനുകൾ ആണ് മൾട്ടി വ്യൂ പ്രൊജക്ഷനുകളിൽ നമുക്ക് ഈ ഫ്രണ്ട് വ്യൂ ടോപ് വ്യൂ പ്രൊഫൈൽ വ്യൂ അഥവാ സൈഡ് വ്യൂ ഉണ്ട് അനുയോജ്യമായ സ്ഥലങ്ങളിൽ കാണിക്കുന്ന രണ്ട് വ്യത്യസ്ത പ്ലെയിനുകളിൽ ഒരു മുഴുവൻ വസ്തുവും പ്രൊജക്റ്റ് ചെയ്യുന്ന രീതി ഇതാണ് അവ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ സൈഡ് വ്യൂ എന്നിവയാണ് ഇത്തരത്തിലുള്ളവയെ ഓർത്തോഗണൽ പ്രൊജക്ഷനുകൾ എന്ന് വിളിക്കുന്നു ആക്സോണോമെട്രിക് പ്രൊജക്ഷനുകളിലും ഒബ്ലിക് പ്രൊജക്ഷനുകളിലും പൂർണ്ണമായ ഒബ്ജക്റ്റ് ഒരു പിക്ചോറിയൽ ഡ്രായിങ് ആയി കാണപ്പെടും അതിനാൽ ഒബ്ജക്റ്റ് ചെറുതായി വളച്ചൊടിക്കപ്പെട്ടേക്കാം മാത്രമല്ല ഒബ്ജക്റ്റിനെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും നമുക്ക് ലഭിച്ചേക്കില്ല മൾട്ടി വ്യൂ ഒബ്ജക്റ്റുകളിൽ ഫ്രണ്ട് വ്യൂ ടോപ് വ്യൂ സൈഡ് വ്യൂ ബാക്സൈഡ് വ്യൂ എന്നിങ്ങനെ വ്യത്യസ്തമായ കാഴ്ചകൾ നമുക്ക് ഉണ്ട് വളരെയധികം കാഴ്ചകൾ ലഭ്യമാണ് ഈ ഓർത്തോഗണൽ മൾട്ടി വ്യൂ പ്രൊജക്ഷനുകളിൽ മുഴുവൻ ഒബ്ജക്റ്റും ദൃശ്യമാകും നമ്മുടെ മുഴുവൻ കോഴ്സിലും നമ്മൾ പ്രധാനമായും ഈ മൾട്ടി വ്യൂ ഡ്രോയിംഗുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും അതിനാൽ ഒരു ചിത്രത്തെ പ്രതിനിധീകരിക്കുന്നതിന് ഏത് പ്രൊജക്ഷൻ ആണ് നല്ലതു ഈ ഡ്രോയിംഗുകളുടെ വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ നമുക്ക് നോക്കാം പ്രത്യേകിച്ച് പ്രൊജക്ഷനുകൾ ഉദാഹരണത്തിന് ഇവിടെ നമുക്ക് താരതമ്യപ്പെടുത്തുന്ന ഒരു മൾട്ടി വ്യൂ പ്രൊജക്ഷന്റെ പിക്ചോറിയൽ ഡ്രായിയിങ്ങും ഒരു പെർസ്പെക്റ്റീവ് പ്രൊജക്ഷനും ഉണ്ട് മൾട്ടി വ്യൂ ഡ്രോയിംഗിൽ വെർട്ടിക്കൽ പ്ലെയിൻ ഹൊറിസോണ്ടൽ പ്ലെയിൻ അല്ലെങ്കിൽ പ്രൊഫൈൽ പ്ലെയിൻ പോലുള്ള വ്യത്യസ്ത പ്ലെയിനുകൾ പ്രദർശിപ്പിക്കുന്ന വ്യത്യസ്ത കാഴ്ചകൾ നമുക്ക് ഉണ്ട് പിക്ചോറിയൽ ഡ്രായിങ്ങിന്റെ കാര്യത്തിൽ ഇത് ഒരു കാഴ്ചയിൽ ഒരു വസ്തുവിന്റെ 3 വശങ്ങളെ പ്രതിനിധീകരിക്കുന്നു അതിനാൽ 3 വ്യത്യസ്ത കാര്യങ്ങളെ ആദ്യത്തേത് രണ്ടാമത്തേത് മൂന്നാമത്തേത് പോലുള്ള മൂന്ന് ചിത്രങ്ങളായി വിഭജിക്കാതെ ഒറ്റ ചിത്രമായി കാണിക്കുന്നു ഉദാഹരണത്തിന് ഇതു നോക്കാം ഇതിൽ എല്ലാ 3 കാഴ്ചകളും ലഭ്യമാണ് എന്നാൽ നമ്മൾ അത് ഷീറ്റിൽ വരയ്ക്കുമ്പോൾ അത് ചെറുതായി വളച്ചൊടിക്കപ്പെട്ടേക്കാം ഒബ്ജക്റ്റ് മുകളിലെ ഉപരിതലത്തിൽ ചതുരാകൃതിയിലായിരിക്കാം പക്ഷേ നമ്മൾ പ്രതിനിധീകരിക്കുമ്പോൾ അത് ഒരു സമാന്തരചലനം പോലെ കാണപ്പെടാം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സ്വാഭാവികമായും ഈ പിക്ചോറിയൽ ഡ്രായിങ്ങിൽ നിന്ന് പുറത്തുവരുന്നു ഇത് ഐസോമെട്രിക് ഡ്രോയിംഗ് ആണെങ്കിൽ അത് ഒരുതരം പിക്ചോറിയൽ ഡ്രോയിംഗ് കൂടിയാണെങ്കിൽ അത് 3 രേഖകളെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കും അതിനെ നമ്മൾ ഐസോമെട്രിക് അക്ഷം എന്ന് വിളിക്കുന്നു വ്യത്യസ്ത അക്ഷത്തിൽ കാണിക്കുന്നതിനുപകരം ലംബ രേഖ ഉൾക്കൊള്ളുന്ന ഐസോമെട്രിക് അക്ഷം എന്നാണ് നമ്മൾ ഇതിനെ നാമകരണം ചെയ്യുന്നത് ഇതാണ് ലംബ രേഖ മറ്റ് രണ്ട് രേഖകൾ അതിന്റെ ഇരുവശത്തും 30 ഡിഗ്രിയാണ് ഉണ്ടാക്കുന്നത് അതിനാൽ നമ്മൾ ഇത് കാണാൻ പോകുന്നുവെങ്കിൽ ഈ വശത്ത് 30 ഡിഗ്രിയും ഈ വശത്ത് 30 ഡിഗ്രിയും ഉണ്ടാക്കുന്ന ലംബ രേഖയാണിത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് നിർമ്മിക്കാൻ കഴിയുമെങ്കിൽ അത്തരം ഡ്രോയിംഗുകളെ ഐസോമെട്രിക് ഡ്രോയിംഗ് എന്ന് വിളിക്കുന്നു ഈ ലംബ രേഖയുടെയും രണ്ട് 30 ഡിഗ്രി രേഖകളുടെയും വിഭജനം ബ്ലോക്കിന്റെ താഴത്തെ മുൻവശത്തെ ചതുര കോണുകളിലായിരിക്കും ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനുകളുടെ രണ്ടാമത്തെ മൊഡ്യൂളിലുള്ള ഐസോമെട്രിക് ഡ്രോയിയിങ്ങിൽ ഈ പിക്ചോറിയൽ ഡ്രായിങ്ങിനെക്കുറിച്ച് നമ്മൾ കൂടുതലറിയും വ്യത്യസ്ത കാഴ്ചകളുള്ള ഒരു മൾട്ടി വ്യൂ ഡ്രോയിംഗ് ഒബ്ജക്റ്റിന്റെ വിശദാംശങ്ങളെ പൂർണ്ണമായും പ്രതിനിധീകരിക്കുന്നു നമുക്ക് ഒരു വിവരവും നഷ്ടപ്പെടാൻ പോകുന്നില്ല അത് നോക്കുമ്പോൾ നമ്മൾ ഒരു വ്യതിയാനവും സൃഷ്ടിക്കാൻ പോകുന്നില്ല ഉദാഹരണത്തിന് നിങ്ങളുടെ മുന്നിലുള്ള മോണിറ്റർ നിങ്ങൾ ആ പ്ലെയിനിലേക്ക് ലംബമായി നോക്കുകയാണെങ്കിൽ അത് ഒരു ദീർഘചതുരം പോലെ കാണപ്പെടാം എന്നാൽ നമ്മൾ ഇത് വശങ്ങളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അത് പ്രൊജക്ഷൻ പോലെ തോന്നാം അല്ലെങ്കിൽ ഒരു സമാന്തരചലനം പോലെ കാണപ്പെടാം അതിനാൽ ഒരു വ്യൂ പ്രൊജക്ഷൻ അല്ലെങ്കിൽ ഒരു മൾട്ടി വ്യൂ ഉള്ളതിലൂടെ വ്യതിരിക്തമായ പ്രശ്നങ്ങളൊന്നും വരുത്താതെ നമുക്ക് എന്താണ് നീളം വീതി ഉയരം എന്താണ് എന്ന് പ്രതിനിധീകരിക്കാൻ കഴിയും അതിനാൽ ഇത് വസ്തുവിന്റെ പൂർണ വിശദാംശങ്ങളും അതിന്റെ ആകൃതിയും വലുപ്പവും കൃത്യമായി നൽകുന്നു പിൿറ്റോറിയൽ ഡ്രോയിംഗിന്റെ കാര്യത്തിൽ ഇത് നേരിട്ട് ഒബ്ജക്റ്റ് വിഷ്വലൈസേഷൻ നൽകുന്നു 2 ഡി ഷീറ്റുകളിൽ അളവുകൾ ചെറുതായി വളച്ചൊടിക്കപ്പെടുമെങ്കിലും അത് നേരിട്ട് ആ വസ്തുവിന്റെ ദൃശ്യവൽക്കരണം നൽകുന്നു പെർസ്പെക്റ്റീവ് ഡ്രോയിംഗിന്റെ കാര്യത്തിൽ വസ്തു നമ്മുടെ കണ്ണുകളിലൂടെ എന്താണോ അത് പോലെ തോന്നുന്നു നമുക്ക് അല്പം ചരിവ് ഉള്ള ഒരു വസ്തുവിനെ നോക്കുകയാണെങ്കിൽ അത് നമ്മുടെ കണ്ണിൽ എങ്ങനെ കാണുന്നുവോ സമാനമായ രീതിയിൽ നമുക്ക് പെർസ്പെക്റ്റീവ് ഡ്രോയിങ്ങിൽ ലഭിക്കുന്നു മൾട്ടി വ്യൂ ഡ്രോയിംഗുകൾ നിർമ്മിക്കുന്നതിന് ഒരു ചെറിയ വൈദഗ്ദ്ധ്യം ആവശ്യമാണ് അതായത് വസ്തുവിനെ ദൃശ്യവൽക്കരിക്കുന്നതിനുള്ള പരിശീലനം ഷീറ്റിലേക്ക് ആ വിഷ്വൽ പ്രതിനിധീകരിക്കുന്നതിന് ചെറിയ ഇൻഫ്യൂഷൻ ആവശ്യമാണ് പിക്ചോറിയൽ ഡ്രായിങ്ങിന്റെ കാര്യത്തിൽ പ്രധാന എതിർപ്പ് ആകൃതിയും കോണുകളുടെ വികലവും സംഭവിക്കുന്നു എന്നതാണ് അതിനാൽ ഗുണങ്ങൾ പച്ച നിറത്തിലുള്ള ഡോട്ടുകളിലും പോരായ്മകളോ പ്രശ്നങ്ങളോ ചുവന്ന നിറത്തിലുള്ള ഡോട്ടുകളിലും കാണിക്കുന്നു അതിനാൽ മൾട്ടി വ്യൂ ഡ്രോയിംഗുകളിൽ എല്ലായ്പ്പോഴും നമ്മൾ ഒബ്ജക്റ്റുകളിൽ ചെറിയ ഉൾപ്പെടുത്തലുകൾ ആവശ്യമാണ് ഷീറ്റിലെ വ്യത്യസ്ത കാഴ്ചകളിലേക്ക് നമ്മൾ അതിനെ എങ്ങനെ പ്രതിനിധീകരിക്കും പിൿറ്റോറിയൽ ഡ്രോയിംഗിന്റെ കാര്യത്തിൽ നമ്മൾ ഒരു വൃത്തത്തെ ചരിഞ്ഞ ദിശയിൽ നോക്കുകയാണെങ്കിൽ അത് ഒരു അണ്ഡവൃത്തം പോലെ കാണപ്പെടാം ഉദാഹരണത്തിന് ഇവിടെ നമ്മൾ അത്തരം എലിപ്റ്റിക്കൽ തീം കാണുന്നു ഇവിടെ ഒരു സർക്കിൾ ഒരു അണ്ഡവൃത്തം പോലെ കാണപ്പെടുന്നു അതുപോലെ ഒരു ദീർഘചതുരം ഒരു സമാന്തരചലനം പോലെ കാണപ്പെടുന്നു വലത് ആംഗിൾ പൂർണ്ണമായും ഒപ്റ്റിയൂസ് കോണുകളായി കാണപ്പെടുന്നു ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പിക്ചോറിയൽ ഡ്രായിങ്ങിൽ വരുന്നു നമ്മൾ പെർസ്പെക്റ്റീവ് ഡ്രോയിംഗ് നോക്കുകയാണെങ്കിൽ ഡ്രോയിംഗ് ഷീറ്റുകളിൽ അവ സൃഷ്ടിക്കുന്നത് അൽപം ബുദ്ധിമുട്ടാണ് കാരണം വലുപ്പവും ആകൃതിയും വികൃതമാവുന്നു ഉദാഹരണത്തിന് നമ്മൾ സൈക്കിൾ ഓടിക്കുകയോ കാർ ഓടിക്കുകയോ ചെയ്യുകയാണെങ്കിൽ റോഡ് ഒരു അറ്റത്ത് നിന്ന് മറ്റൊരു അറ്റം വരെ സമാന്തര രേഖകളായിരിക്കണം ഇവ ആ റോഡിന്റെ ചുരുങ്ങിയ സ്ഥലത്തെങ്കിലും ഒരിക്കലും അവസാനിക്കാത്ത രേഖകളാണ് എന്നാൽ നിങ്ങൾ ഒരു ചിത്രം എടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഈ പെർസ്പെക്റ്റീവ് ഡ്രോയിംഗ് നോക്കുമ്പോഴോ ഈ രണ്ട് രേഖകളും തമ്മിൽ വിഭജിക്കാൻ പോകുന്നതുപോലെ തോന്നുന്നു അതിനാൽ വീതിയിൽ ഒരു വക്രീകരണം കാണും അതിനാൽ നമ്മൾ ഈ റോഡുകളെയും മറ്റ് വസ്തുക്കളെയും ഒരു ഡ്രോയിംഗ് ഷീറ്റിൽ പ്രതിനിധീകരിക്കുമ്പോൾ അവ ഒത്തുചേരുന്നതായി തോന്നുന്നു അതിനാൽ ഈ പെർസ്പെക്റ്റീവ് ഡ്രോയിങ്ങിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലവിലുണ്ട് ആ സന്ദർഭത്തിൽ ഒരു വസ്തുവിന്റെ വ്യത്യസ്ത പ്ലെയിനുകളിൽ പ്രൊജക്ഷൻ ചെയ്യുമ്പോൾ ആ വസ്തുവിന്റെ ആകൃതിയും വലുപ്പവും അനുസരിച്ച് എല്ലാം നിർവചിക്കുന്നു പ്രധാനമായും രണ്ട് പ്ലെയിനുകൾ വ്യാപകമായി ഉപയോഗിക്കുന്നു ആദ്യത്തെ പ്ലെയിനിനെ വെർട്ടിക്കൽ പ്ലെയിൻ എന്ന് വിളിക്കുന്നു അത് ആ അടിത്തറയിലേക്ക് ലംബമാണ് മറ്റൊന്ന് ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണ് ദിശകളെ അടിസ്ഥാനമാക്കി അത് x അക്ഷത്തിലാണെങ്കിൽ അത് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ആയിരിക്കും അത് y അക്ഷത്തിലാണെങ്കിൽ അത് വെർട്ടിക്കൽ പ്ലെയിനിൽ ആയിരിക്കും മറ്റൊരു പ്ലെയിൻ പ്രൊഫൈൽ പ്ലെയിൻ ആണ് ആ പ്രൊഫൈൽ പ്ലെയിൻ ഈ ഭാഗത്തോ ഒരുപക്ഷേ ആ ഭാഗത്തോ ആകാം ഇവ അധിക വിശദാംശങ്ങളാണ് വെർട്ടിക്കൽ പ്ലെയിനുകളും ഹൊറിസോണ്ടൽ പ്ലെയിനുകളും പ്രിൻസിപ്പൽ പ്ലെയിനുകൾ അല്ലെങ്കിൽ മെയിൻ പ്ലെയിനുകളെ റെഫർ ചെയ്യുന്നു സൈഡ് പ്ലെയിനുകൾ എല്ലായ്പ്പോഴും പ്രൊഫൈൽ പ്ലെയിനുകളാണ് മറ്റ് പ്ലെയിനുകളെ ഓക്സിലിയറി പ്ലെയിൻ എന്ന് വിളിക്കുന്നു ഈ ഓക്സിലിയറി പ്ലെയിനുകൾ ഓക്സിലിയറി വെർട്ടിക്കൽ പ്ലെയിനുകളോ ഓക്സിലിയറി ഇന്ക്ളയിൻഡ് പ്ലെയിനുകളോ പ്രൊഫൈൽ പ്ലെയിനുകളോ ആകാം ഉദാഹരണത്തിന് നമുക്ക് ഈ ഓക്സിലിയറി പ്ലെയിനുകൾ നോക്കാം അതിനാൽ ഹൊറിസോണ്ടൽ പ്ലെയിനുകളും വെർട്ടിക്കൽ പ്ലെയിനുകളും എല്ലായ്പ്പോഴും നിശ്ചിതമായിരിക്കും ഇപ്പോൾ മറ്റൊരു പ്ലെയിൻ എടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അത് ഒന്നുകിൽ വെർട്ടിക്കൽ പ്ലെയിൻ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണ് മജന്ത നിറത്തിൽ കാണിച്ചിരിക്കുന്ന ഇതുപോലുള്ള ഒരു പ്ലെയിൻ നമുക്ക് തിരഞ്ഞെടുക്കാം ഈ ഓക്സിലിയറി പ്ലെയിൻ ലംബ ദിശയിലുമാണ് ആ തിരശ്ചീന അടിത്തറയിലേക്ക് ഇത് ലംബമാണ് എന്നിരുന്നാലും ഇത് ഒരു നിശ്ചിത ആംഗിൾ തീറ്റ θ യിലൂടെ വെർട്ടിക്കൽ പ്ലെയിനിലേക്ക് ചരിഞ്ഞിരിക്കുന്നു നമ്മൾ കൂടുതൽ വിശദാംശങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഓക്സിലിയറി വെർട്ടിക്കൽ പ്ലെയിൻ ഹൊറിസോണ്ടൽ പ്ലെയിനിന് ലംബമായിരിക്കും ഉദാഹരണത്തിന് നമ്മുടെ ഡ്രോയിംഗ് ഷീറ്റുകൾ നോക്കാം ഈ ഡ്രോയിംഗ് ഷീറ്റിൽ ഏതെങ്കിലും ഒബ്ജക്റ്റിനെ പ്രതിനിധീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇതിനെ ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്ന് വിളിക്കുന്നു ഒരു ഷീറ്റ് കൂടി എടുത്ത് അതിനെ ലംബമായി വെക്കുക നമ്മൾ ഈ ഷീറ്റിനെ വെർട്ടിക്കൽ പ്ലെയിൻ എന്ന് വിളിക്കുന്നു അതിനാൽ ഹൊറിസോണ്ടൽ പ്ലെയിൻ ഉപയോഗിച്ച് 90 ഡിഗ്രി നിർമ്മിക്കുന്ന വെർട്ടിക്കൽ പ്ലെയിൻ ഇതാണ് ഹൊറിസോണ്ടൽ പ്ലെയിൻ ഇതാണ് മറ്റേതെങ്കിലും പ്ലെയിൻ നിർമ്മിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഉദാഹരണത്തിന് നമുക്ക് ജ്യാമിതി ബോക്സ് തിരഞ്ഞെടുക്കാം തിരശ്ചീനമായി 90 ഡിഗ്രിയാണ് വെർട്ടിക്കൽ പ്ലെയിൻ ഉള്ളത് ഹൊറിസോണ്ടൽ പ്ലെയിൻ മുതൽ വെർട്ടിക്കൽ പ്ലെയിൻ വരെ ചരിഞ്ഞ ഒരു പ്ലെയിൻ കൂടി നമുക്ക് നിർമ്മിക്കാൻ കഴിയും അത്തരം പ്ലെയിനുകളെ ഓക്സിലിയറി പ്ലെയിനുകൾ എന്ന് വിളിക്കുന്നു അതിനാൽ നമുക്ക് അവതരണത്തിലേക്ക് മടങ്ങാം അതുപോലെ ഹൊറിസോണ്ടൽ പ്ലെയിനുമായി ബന്ധപ്പെട്ട് ഒരു കോണുള്ള ഒരു ഓക്സിലിയറി പ്ലെയിൻ കൂടി നിർമ്മിക്കാൻ കഴിയും ഈ വെർട്ടിക്കൽ പ്ലെയിനും ഹൊറിസോണ്ടൽ പ്ലെയിനും നിശ്ചിതമായി തുടരുന്നു നമ്മൾ ഒരു പ്ലെയിൻ കൂടി എടുത്ത് അതിനെ ഓക്സിലിയറി ഇന്ക്ളയിൻഡ് പ്ലെയിൻ എന്ന് നാമകരണം ചെയ്യാൻ പോകുന്നു ഓക്സിലിയറി വെർട്ടിക്കൽ പ്ലെയിനും ചരിഞ്ഞിരിക്കുന്നു എന്നാൽ ഇത് വെർട്ടിക്കൽ പ്ലെയിനിലേക്ക് ചരിഞ്ഞിരിക്കുന്നു നമ്മൾ ഉപയോഗിക്കുന്ന നൊട്ടേഷൻ ഓക്സിലിയറി വെർട്ടിക്കൽ പ്ലെയിൻ ആണ് കാരണം ഇത് എല്ലായ്പ്പോഴും ഹൊറിസോണ്ടൽ പ്ലെയിനിന് 90 ഡിഗ്രി ആയിരിക്കും മറ്റൊരു പ്ലെയിൻ ഓക്സിലിയറി ഇന്കളഇൻഡ് പ്ലെയിൻ ആണ് അതിനാൽ ഈ ലംബ പദം ഇനി ലംബമല്ലാത്തതിനാൽ ഒഴിവാക്കുന്നു ഇത് ഹൊറിസോണ്ടൽ പ്ലെയിനുമായി ബന്ധപ്പെട്ട് ഒരു ആംഗിൾ ബീറ്റ β ഉണ്ടാക്കുകയും തിരശ്ചീന രേഖയുമായി ബന്ധപ്പെട്ട് ചരിഞ്ഞിരിക്കുകയും ചെയ്യുന്നു അതിനാൽ അതിനെ ഒരു ഓക്സിലിയറി ഇന്കളഇൻഡ് പ്ലെയിൻ എന്ന് നമ്മൾ വിളിക്കുന്നു മറ്റ് പ്ലെയിനുകളെ പ്രൊഫൈൽ പ്ലെയിൻ ഹൊറിസോണ്ടൽ പ്ലെയിൻ വെർട്ടിക്കൽ പ്ലെയിൻ എന്ന് വിളിക്കുന്നു ഹൊറിസോണ്ടൽ പ്ലെയിനിനും വെർട്ടിക്കൽ പ്ലെയിനിനും നോർമലായി ഒരു പ്ലെയിൻ കൂടി എടുക്കുക അതിനാൽ നമ്മൾ ഈ ആംഗിൾ അളക്കുകയാണെങ്കിൽ അത് 90 ഡിഗ്രിയും ഈ ആംഗിളും 90 ഡിഗ്രി ആയിരിക്കും അതിനാൽ അത്തരം പ്ലെയിനുകളെ പ്രൊഫൈൽ പ്ലെയിൻ എന്ന് വിളിക്കുന്നു ഈ പ്രൊഫൈൽ പ്ലെയിൻ ഹൊറിസോണ്ടൽ പ്ലെയിനിന് ഒരു ആംഗിൾ ബീറ്റ β ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ ഓക്സിലിയറി ഇന്കളഇൻഡ് പ്ലെയിൻ എന്ന് വിളിക്കുന്നു ഈ പ്രൊഫൈൽ പ്ലെയിൻ വെർട്ടിക്കൽ പ്ലെയിനിന്റെ ദിശയിൽ ഒരു ആംഗിൾ തീറ്റ θ ഉപയോഗിച്ച് ചരിഞ്ഞാൽ അതിനെ നമ്മൾ ഓക്സിലിയറി വെർട്ടിക്കൽ പ്ലെയിൻ എന്ന് വിളിക്കുന്നു പ്ലെയിനുകളുടെ പ്രത്യേക കേസുകളാണിത് അതിനാൽ ഈ രേഖയിൽ നിന്ന് നമുക്ക് രണ്ടായി വിഭജിച്ചിരിക്കുന്ന പ്ലെയിനുകളെ തിരഞ്ഞെടുക്കാം അവ പ്രിൻസിപ്പൽ പ്ലെയിനും ഓക്സിലിയറി പ്ലെയിനും ആയിരിക്കും പ്രിൻസിപ്പൽ പ്ലെയിനുകൾ എല്ലായ്പ്പോഴും വെർട്ടിക്കൽ പ്ലെയിനും ഹൊറിസോണ്ടൽ പ്ലെയിനും പോലെ ഉറപ്പിച്ചിരിക്കുകയായിരിക്കും സങ്കീർണ്ണമായ വിശദാംശങ്ങൾ വശത്ത് എങ്ങനെ കാണപ്പെടുന്നു റ്റേപ്പേർഡ് ആകൃതിയും മറ്റ് കാര്യങ്ങളും ഉണ്ടെങ്കിൽ വസ്തുക്കളെക്കുറിച്ച് കൂടുതൽ സവിശേഷതകൾ നൽകാൻ ഓക്സിലിയറി പ്ലെയിനുകൾ സഹായിക്കുന്നു ഓക്സിലിയറി ഇന്ക്ളയിൻഡ് പ്ലെയിനിലേക്കോ ഓക്സിലിയറി വെർട്ടിക്കൽ പ്ലെയിനിലേക്കോ അത് പ്രൊജക്റ്റ് ചെയ്യുന്നതിലൂടെ ആ വസ്തുവിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കും ഇത്തരത്തിലുള്ള ഓക്സിലിയറി പ്ലെയിനുകൾ നമ്മൾ എങ്ങനെ നിർമ്മിക്കും അത് ചെയ്യുന്നതിന് ലഭ്യമായ കാഴ്ചകൾ നോക്കാം ഹൊറിസോണ്ടൽ പ്ലെയിൻ വെർട്ടിക്കൽ പ്ലെയിൻ എന്നിവയിൽ നിന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ പാരലൽ പ്ലെയിനിൽ ഒരു ഹൊറിസോണ്ടൽ പ്ലെയിൻ താഴത്തെ ദിശയിൽ 90 ഡിഗ്രി തിരിക്കാൻ കഴിയും നമുക്ക് ഇതിനെ ഹൊറിസോണ്ടൽ പ്ലെയിൻ ആയി കണക്കാക്കാം ഒരുപക്ഷേ ഇവിടെ ഒരു വസ്തു ഉണ്ടായിരിക്കാം ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നമ്മൾ നേടാൻ പോകുന്ന പ്രൊജക്ഷൻ എടുക്കുക തുടർന്ന് ഈ പ്ലെയിൻ 90 ഡിഗ്രി തിരിക്കുക അപ്പോൾ നമുക്ക് ഒരുതരം കാഴ്ച ലഭിക്കും അതിനെ നമ്മൾ ടോപ്പ് വ്യൂ എന്ന് വിളിക്കുന്നു ലംബ പ്രൊജക്ഷൻ എല്ലായ്പ്പോഴും വെർട്ടിക്കൽ പ്ലെയിനിലാണ് അതിനാൽ അതാണ് നമ്മൾ ഫ്രണ്ട് വ്യൂ ആയി നേടാൻ പോകുന്നത് നമുക്ക് ആ കാഴ്ച്ചയിൽ ടോപ് വ്യൂ ലഭിക്കാൻ പോകുന്നു പ്രൊഫൈൽ പ്ലെയിനിലെ പ്രൊജക്ഷനിൽ തിരഞ്ഞെടുത്ത് ആ പ്രൊഫൈൽ പ്ലെയിനിനെ 90 ഡിഗ്രി തിരിക്കുക അതിനാൽ അതിൽ പോകാൻ പോകുന്ന പ്ലെയിൻ എന്തുതന്നെയായാലും നമുക്ക് ലഭിക്കാൻ പോകുന്നത് സൈഡ് വ്യൂ ആണ് അവിടെ കൂടുതൽ വിശദാംശങ്ങൾ നോക്കാം ഉദാഹരണത്തിന് ഈ ഹൊറിസോണ്ടൽ പ്ലെയിൻ പ്രൊജക്ഷന് നമ്മൾ അത് 90 ഡിഗ്രി താഴേക്ക് തിരിക്കുകയാണെങ്കിൽ ഡ്രോയിംഗ് ഷീറ്റിൽ ഈ ഹൊറിസോണ്ടൽ പ്ലെയിൻ ലഭിക്കും ഡ്രോയിംഗ് ഷീറ്റിൽ ത്രിമാന ഒബ്ജക്റ്റ് നിർമ്മിക്കുന്നത് എല്ലായ്പ്പോഴും ബുദ്ധിമുട്ടാണ് എന്നതിനാലാണിത് അത് നമുക്ക് പൂർണ്ണമായ വിവരങ്ങൾ നൽകിയേക്കില്ല അതിനുപകരം ഈ മുഴുവൻ ഒബ്ജക്റ്റ് വിവരങ്ങളും നമ്മൾ വെർട്ടിക്കൽ പ്ലെയിനിലും പിന്നീട് ഹൊറിസോണ്ടൽ തുടർന്ന് പ്രൊഫൈൽ പ്ലെയിനിലും പ്രൊജക്റ്റ് ചെയ്യുന്നു തുടർന്ന് പാരലൽ തലം പ്ലെയിനിലുള്ള വിവരങ്ങൾ നമ്മൾ 90 ഡിഗ്രിയിൽ തിരിക്കുന്നു അതിനാൽ താഴേക്ക് പോകുന്ന ദിശയിലേക്ക് ഒരു വെർട്ടിക്കൽ പ്ലെയിൻ പ്രൊജക്ഷൻ നമുക്ക് ലഭിക്കുന്ന ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഒബ്ജക്റ്റ് നൽകുന്നു അതുപോലെ നമ്മൾ പ്രൊഫൈൽ പ്ലെയിൻ പ്രൊജക്ഷൻ 90 ഡിഗ്രി തിരിക്കാൻ പോകുന്നുവെങ്കിൽ നമുക്ക് സൈഡ് വ്യൂ ലഭിക്കും ഒബ്ജക്റ്റിന്റെ ഇടതുവശത്ത് നിന്ന് നോക്കുന്നതിനാൽ ഇത് സൈഡ് വ്യൂ ആണ് ഇതാണ് ഒബ്ജക്റ്റ് എങ്കിൽ നമ്മൾ അത് ഇടത് വശത്ത് നിന്നും വലതുവശത്ത് നിന്നും നോക്കാൻ പോകുന്നു അതിനാൽ നമ്മൾ ആ പ്ലെയിനിൽ ലഭിക്കാൻ പോകുന്ന പ്രൊജക്ഷനെ ഇടത് വശത്തെ പ്രൊജക്ഷൻ എന്ന് വിളിക്കുന്നു ഇതിനെയാണ് നമ്മൾ ഇടത് സൈഡ് വ്യൂ എന്ന് വിളിക്കുന്നത് ഫ്രണ്ട് വ്യൂ സ്വാഭാവികമായും ആ ദിശയിലേക്കാണ് നമ്മൾ കാണാൻ പോകുന്നത് മുകളിൽ നിന്ന് നമ്മൾ കാണാൻ പോകുന്നതെന്തും അത് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ടോപ് വ്യൂ ആയി പ്രദര്ശിപ്പിക്കപ്പെടും ഹൊറിസോണ്ടൽ പ്ലെയിൻ തിരശ്ചീന ദിശയിൽ 2 ഡി ഷീറ്റിൽ കാണിക്കാൻ കഴിയാത്തതിനാൽ നമ്മൾ അതിനെ വെർട്ടിക്കൽ പ്ലെയിനിന് താഴെയാക്കുന്നു ഈ പ്ലെയിനിലെ വിവരങ്ങളെല്ലാം നമുക്ക് കാണിക്കാൻ കഴിയുമെങ്കിൽ പ്രൊജക്റ്റ് ചെയ്ത കാഴ്ചകൾ ഒന്നിനുപുറകെ ഒന്നായി കാണിക്കും അത്തരത്തിലുള്ള പ്രൊജക്ഷനെ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് വിളിക്കുന്നു അതിനാൽ അവിടെ നമുക്ക് മുകളിൽ ഫ്രണ്ട് വ്യൂ ലഭിക്കും ചുവടെ ടോപ് വ്യൂ ലഭിക്കും വലതുവശത്ത് ലെഫ്റ്റ് സൈഡ് വ്യൂ ലഭിക്കും മുകളിൽ വെർട്ടിക്കൽ പ്ലെയിൻ ലഭിക്കും ചുവടെ ഹൊറിസോണ്ടൽ പ്ലെയിൻ ലഭിക്കും പ്രൊഫൈൽ പ്ലെയിൻ വിവരങ്ങൾ വശങ്ങളിൽ ലഭിക്കും ഇതിനെ ആണ് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത് അടുത്ത ക്ലാസ്സിൽ വിവരങ്ങൾ മനസ്സിലാക്കുന്നതിനായി പ്രതലങ്ങളിലെ വ്യത്യസ്ത വസ്തുക്കളുടെ പ്രൊജക്ഷനുകളെക്കുറിച്ച് നമ്മൾ കൂടുതലറിയും